ശരിയാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ വേരിയബിളുകൾ തിരഞ്ഞെടുക്കും എന്നതിലേക്ക് വരാം ശരി 1D യുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ചോയ്സ് ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചില്ല അതിനാൽ ഞങ്ങൾ അത് ഇവിടെ നോക്കും അപ്പോൾ ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ എന്ന് എന്താണ് വിളിക്കുന്നത് ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമായി കാണപ്പെടും കാരണം ഞങ്ങൾ ഇതുവരെ മൊത്തം ഫീൽഡ് ഫോർമുലേഷനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത് അതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് പലിശയുടെ വേരിയബിൾ മൊത്തം ഫീൽഡിന് തുല്യമാണ് അതിനാലാണ് ഇതിനെ മൊത്തം ഫീൽഡ് ഫോർമുലേഷൻ എന്ന് വിളിക്കുന്നത് അതിനാൽ ഇവിടെയുള്ളത് ഇങ്ങനെ എഴുതാം ചിതറിക്കിടക്കുന്ന പ്രശ്നങ്ങൾ അറിയപ്പെടുന്നു നിങ്ങളുടെ വേരിയബിളുകൾ ഫയൽ ചെയ്ത മൊത്തം അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന ഫീൽഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് മൊത്തത്തിൽ ഓരോ രീതിക്കും ചില ഗുണങ്ങളും ചില ദോഷങ്ങളുമുണ്ട് അതിനാൽ മൊത്തത്തിലുള്ള ഫീൽഡ് വേരിയബിൾ ശരിയാക്കാൻ അനുവദിക്കുക എന്നതാണ് ആദ്യത്തേതും ഏറ്റവും അവബോധജന്യവുമായ തിരഞ്ഞെടുപ്പ് അതിനാൽ എനിക്ക് ചിതറിക്കിടക്കുന്ന ഫീൽഡ് വേണമെങ്കിൽ എനിക്ക് മൊത്തം ഫീൽഡ് ലഭിക്കുമ്പോൾ ഞാൻ സംഭവ ഫീൽഡിൽ നിന്നും തിരിച്ചും ചിതറിയ ഫീൽഡിന് വേണ്ടി തിരിച്ചും കുറയ്ക്കണം ഞാൻ ഇവിടെ മൊത്തത്തിലുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ആശയപരമായ ലാളിത്യം എന്താണ് അതിർത്തി വ്യവസ്ഥകൾ ആരാണ് അനുസരിക്കുന്നത് വിദ്യാർത്ഥി ചിതറിക്കിടക്കുന്ന വയൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ അതിർത്തി വ്യവസ്ഥകളില്ല വിദ്യാർത്ഥി സത്യമാണെങ്കിലും ടാൻജൻഷ്യൽ E ഉം tangential H ഉം ആയ ബൌണ്ടറി അവസ്ഥ സംരക്ഷിതമാണ് അവ മൊത്തം ഫീൽഡ് റൈറ്റ് അനുസരിച്ച് അനുസരിക്കുന്നു അതിനാൽ മൊത്തം ഫീൽഡ് ഫോർമുലേഷൻ അവകാശത്തിൽ സ്വാഭാവിക അതിർത്തി വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നത് എളുപ്പമാണ് അതിനാൽ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താമെന്ന് നമുക്ക് പറയാം അവയെ സ്വാഭാവികമെന്ന് വിളിക്കാം വിദ്യാർത്ഥി ഒബ്ജക്റ്റ് അനുസരിക്കുന്നവർ ഇവയാണോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ അവയെ സ്വാഭാവിക മാക്സ്വെല്ലിന്റെ ടാൻജെൻഷ്യൽ അതിർത്തി അവസ്ഥ എന്ന് വിളിക്കുന്നുഅടിസ്ഥാനപരമായി ഇ ടാൻ സംരക്ഷിക്കപ്പെടുന്നു എച്ച് ടാൻ സംരക്ഷിക്കപ്പെടുന്നു പക്ഷേ ഞാൻ റേഡിയേഷൻ അതിർത്തി അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു പോരായ്മയാണ് ഞാൻ റേഡിയേഷൻ അതിർത്തി അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ അതിർത്തി വ്യവസ്ഥ ആരാണ് അനുസരിച്ചത് ചിതറിക്കിടക്കുന്ന ഫീൽഡ് മൊത്തം വയലല്ല അതിനാൽ എന്റെ വേരിയബിൾ 1D യുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ മൊത്തം ഫീൽഡ് ആണെങ്കിൽ ഞാൻ സംഭവ ഫീൽഡ് കുറയ്ക്കുകയും തുടർന്ന് അതിർത്തി വ്യവസ്ഥ ശരിയാക്കുകയും വേണം അതിനാൽ അൽപ്പം കഠിനം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അതിനാൽ നമുക്ക് എന്റെ മുഖഭാവം നോക്കാം അതിനാൽ ഞാൻ അവകാശവുമായി മല്ലിടുന്ന പദമായിരുന്നു അത് അതിനാൽ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ ഇത് അൽപ്പം ബുദ്ധിമുട്ടുള്ള ഭാഗം H സംഭവമായതിനാൽ ആദ്യം എനിക്ക് ഇത് എഴുതണം അതിനാൽ ഞാൻ സംഭവ ഫീൽഡ് ഫൈൻ ചേർക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ആ ആദ്യ ടേമിന്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് ഈ പദം ശരിയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനാൽ അത് ഒരിക്കൽ ശരിയാണെന്ന് നമുക്ക് എഴുതാം ഈ പദപ്രയോഗം അതേപടി നിലനിൽക്കുന്നു ആ ഏകദേശ ഭാവങ്ങൾ ഞാൻ ഇവിടെ അവശേഷിക്കുന്നു അതിനാൽ അതായിരുന്നു ഇത് മാറ്റി പകരം വയ്ക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം അതെ അതിനാൽ ഇവിടെ ഈ പദപ്രയോഗം മുഴുവനും അതേ പദപ്രയോഗം ശരിയായിരിക്കണം ഇപ്പോൾ ഈ പ്രയോഗങ്ങളിൽ അറിയപ്പെടുന്ന പദങ്ങളുണ്ട് അറിയാത്ത പദങ്ങളുണ്ട് അതിനാൽ അറിയപ്പെടുന്ന പദങ്ങൾ ഉദാഹരണമായി എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം സംഭവം അതിനാൽ എനിക്ക് അറിയാവുന്ന ഈ നിബന്ധനകളെല്ലാം ശേഖരിക്കാൻ കഴിയും അവ മാറും ഇവയാണ് അറിയപ്പെടുന്ന നിബന്ധനകൾ എനിക്ക് അവശേഷിക്കുന്നു ഞങ്ങൾ ഇതിനകം 1D യിൽ ചെയ്തത് എഴുതാനുള്ള ഒരു ഫാൻസി മാർഗമാണിത് 1D യിൽ ഞങ്ങൾക്ക് ഒരു റേഡിയേഷൻ അതിർത്തി വ്യവസ്ഥ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു പദം ഞങ്ങൾ എഴുതി ഞങ്ങൾ അത് ചിതറിക്കിടക്കുന്ന ഫീൽഡിൽ മാത്രമേ അടിച്ചേൽപ്പിക്കാൻ കഴിയൂ അപ്പോൾ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എങ്ങനെ ലഭിക്കും ഇത് ഇതുപോലെ എഴുതുക എന്റെ വേരിയബിൾ ആയതിനാൽ ഞാൻ ഒരു പുതിയ Hs ഇവിടെ അവതരിപ്പിക്കേണ്ടതില്ല ഞാൻ കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കും അതിനാൽ ഇവിടെയുള്ള ഈ പദം എന്റെ അവകാശമായിരുന്നു ബാക്കിയുള്ളത് പകരം വയ്ക്കുന്നത് ശരിയാണ് അതിനാൽ ഈ പദം ബൌണ്ടറിയിൽ വലത് അതിർത്തിയിൽ മാത്രം പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ഓർക്കുക അതിനാൽ ഇവിടെ അറിയപ്പെടുന്ന ഈ പദം ഇതാണ് എനിക്ക് പൂജ്യമല്ലാത്ത വലത് വശം നൽകാൻ പോകുന്നത് ഈ H ഓവർ ഇവിടെ അജ്ഞാതമായ പദം ഉള്ളതിനാൽ ഞാൻ അത് ലഭിക്കുമ്പോൾ അത് തിരികെ മാറ്റും ഞാൻ ഈ ആളെ ഇടത് വശത്തേക്ക് തിരികെ നീക്കുകയും വലതുവശത്ത് വലതുവശത്ത് വയ്ക്കുകയും ചെയ്യും അതിനാൽ ഈ പദത്തിൽ തിരികെ പോകും ഈ പദം അതിലേക്ക് പോകും അതാണ് ശരിയായി സംഭവിക്കുക അതിനാൽ മൊത്തം ഫീൽഡ് ഫോർമുലേഷന്റെ രീതി അതാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനാൽ ഏത് ഫീൽഡിലാണ് ഞാൻ അതിർത്തി വ്യവസ്ഥ ഏർപ്പെടുത്തുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഞാൻ അതെ അറിയാം അതിനാൽ ഞാൻ അവിടെ മാറ്റിസ്ഥാപിക്കും കൂടാതെ എച്ച് എന്നത് അജ്ഞാതമാണ് അതിൽ ഞാൻ അടിസ്ഥാന ഫംഗ്ഷനുകൾ മാറ്റിസ്ഥാപിക്കും അതിനാൽ തുടർന്നുള്ള മൊഡ്യൂളുകളിൽ ഞങ്ങൾ പോയി ഒരു കോൺക്രീറ്റ് കേസ് എടുത്ത് അടിസ്ഥാന ഫംഗ്ഷൻ മാറ്റിസ്ഥാപിച്ചുകഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ സമവാക്യങ്ങളുടെ സിസ്റ്റം ലഭിക്കും എന്ന് നോക്കാം വിദ്യാർത്ഥി നമ്മൾ മൊത്തം മൊത്തമെടുത്താൽ സമയം റഫർ ചെയ്യുക 0824 ഒന്നുകൂടി പറയാമോ ശരി ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല അതിനാൽ ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയത് ഈ പ്രയോഗം മുഴുവനായും ഡോട്ട് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അതിനാൽ ടിഎം ഡോട്ട് ഇതൊരു സ്കെയിലർ ആയിരിക്കും അതിനാൽ ഞാൻ ഇതുവരെ ഞാൻ വിട്ടുപോയി കാരണം അത് എല്ലായ്പ്പോഴും ഒരു സ്ഥിരാങ്കം പോലെയാണ് അതിനാൽ ഇത് ഇവിടെ ഒരു സ്കെയിലർ ആയിരിക്കും